എല്ലാവർക്കും ഹെല്ലോ ദുരന്തനിവാരണത്തെക്കുറിച്ചും പുനർനിർമ്മാണത്തെയും കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ നമ്മൾ അപകടസാധ്യതയുടെ സാംസ്കാരിക സിദ്ധാന്തത്തെക്കുറിച്ച് അഥവാ അപകടസാധ്യതയുടെ സാംസ്കാരിക വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും ഞാൻ DPRI ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശുഭജ്യോതി സമദ്ദർആണ് അതിനാൽ അപകട ധാരണകളിൽ സംസ്കാരത്തിന്റെ പങ്കിനെക്കുറിച്ച് നമ്മൾ ഇതിനകം മറ്റ് പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പ്രഭാഷണത്തിൽ ആളുകളുടെ അപകടസാധ്യതയെക്കുറിച്ചുള്ള സാംസ്കാരിക സിദ്ധാന്തം എന്താണ് എന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ ഇത് അവരുടെ സാംസ്കാരിക ബന്ധവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു 1966 ലെ മേരി ഡഗ്ലസ് ന്റെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട ഈ പുസ്തകമാണ് ആന്ത്രോപോളജിയുടെ ആധുനിക ക്ലാസിക്ആയി കണക്കാക്കുന്നത്മോറൽ റിസ്ക് പൊല്ല്യൂഷനെ കുറിച്ചും അപകടത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു കൂടാതെ ടാക്സോണമിക് അനോമലീസ് യഹൂദരുടെ കാര്യത്തിലെ ഭക്ഷണ നിയന്ത്രണങ്ങൾ പന്നിയിറച്ചിയോ പാമ്പോ ഭക്ഷണമായി കഴിക്കാൻ കഴിയാത്ത ഇസ്രായേലി ആളുകൾഎന്നവയെ കുറിച്ച് അവർ ഇതിൽ പറയുന്നു അവ അശുദ്ധരായി കണക്കാക്കപ്പെടുന്നു കാരണം അവ അനോമലി ആണ് അവ കരയിലാണ് താമസിക്കുന്നത് പക്ഷേ അവയ്ക്ക് കാലുകൾ ഇല്ല ഇത് വളരെ അപൂർവമാണ് അതിനാൽ നിങ്ങൾ പാമ്പിനെ തിന്നരുത് അതുപോലെ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കരുത് കാരണം അവയ്ക്ക് പിളർന്ന കുളമ്പുകളുണ്ടെങ്കിലും അവ അയവിറക്കുന്നില്ല അതിനാൽ കുതിരയെയും പശുവിനെയും പോലെയല്ല ഇവ ശുദ്ധിയുള്ളവരാണ് അതിനാൽ നിങ്ങൾ അവയെ കഴിക്കരുത് അതുപോലെ ഉഗാണ്ടയിലെ ഹിമ ഗോത്രത്തിന്റെ കാര്യത്തിൽ അവർ മൃഗസംരക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു അവർ കന്നുകാലികളെ ആശ്രയിക്കുന്നു കന്നുകാലി വളർത്തലിനെ ആശ്രയിച്ച് മൃഗസംരക്ഷണത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്രം ആണത് അവരുടെ സ്ത്രീകൾ കന്നുകാലികളെ തൊടരുത് സ്ത്രീകൾ ഈ കന്നുകാലികളെ തൊടരുത് എന്നാണ് അവർ കരുതുന്നത് സ്ത്രീകൾ കന്നുകാലികളെ സ്പർശിച്ചാൽ കന്നുകാലികൾ മരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ 14 ആം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ കാര്യത്തിലും വെള്ളത്തിന്റെ മോശം ഗുണനിലവാരം വളരെക്കാലമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഇത് ജനങ്ങളെ കൂടുതൽ മുറവിളിയിലേക്ക് നയിച്ചു ഇത് നിർണായകമായ ആശങ്കകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഇതിന്റെ കുറ്റം ജൂതൻമാരുടെ തലയിൽ ആയിരുന്നു കാരണം യഥാർത്ഥത്തിൽ ജൂതന്മാരാണ് ജലത്തെ മലിനമാക്കുന്നുവെന്ന് അവർ പറയുന്നു അതിനാൽ അവർ യൂറോപ്പിലെ ജൂതന്മാരെ കുടിയൊഴിപ്പിക്കാൻ തുടങ്ങിഅപകടസാധ്യതയുടെ സാംസ്കാരിക സിദ്ധാന്തമനുസരിച്ച് അപകടകരമായ സംഭവത്തിന്റെ ഉത്തരവാദിത്തം അലോകേറ്റ് ചെയ്യൽ ഒരു പ്രത്യേക മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സാധാരണ തന്ത്രമാണ് ഇത് ശരിയാണെന്നും ഇത് ശരിയല്ലെന്നും ഇത് മോശമാണ് ഇത് നല്ലതാണ് ഇത് സ്വീകാര്യമാണ് ഇത് അസ്വീകാര്യമാണ് ഇത് ശുദ്ധമാണ് ഇത് മലിനമാണ്എന്നിങ്ങനെ ഓരോ സംസ്ക്കാരവും നിർവചിക്കുന്നു അതിനാൽ ഓരോ സംസ്കാരത്തിനും അതിന്റേതായ മൂല്യങ്ങളുണ്ട് ഈ മൂല്യങ്ങളിലൂടെയും ഈ ലെൻസിലൂടെയും നമുക്ക് നോക്കാം എന്താണ് അപകടസാധ്യതയുള്ളത് എന്താണ് അപകടകരമല്ലാത്തത് എന്താണ് ശുദ്ധമായത് എന്താണ് അശുദ്ധമായത് അവർ ഈ വിവരങ്ങൾ അവരുടെ അംഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു ഇപ്പോൾ മേരി ഡഗ്ലസ് പറഞ്ഞു നമുക്ക് ഒരുതരത്തിൽ ഉള്ള സംസ്കാരങ്ങളുടെ കാറ്റഗറികൾ ഉണ്ടായിരിക്കണം അവിടെ നമുക്ക് നിരവധി സംസ്കാരങ്ങളുണ്ട് പക്ഷേ നമുക്ക് അവയെ ഗ്രൂപ്പുചെയ്യാം അവയെ തരംതിരിക്കാം ഗ്രിഡിലൂടെയും ഗ്രൂപ്പ് പാറ്റേണിലൂടെയും നമുക്ക് അത് ചെയ്യാമെന്നും അവയെ നന്നായി വിശകലനം ചെയ്യുന്നതിനായി സംസ്കാരത്തെ തരംതിരിക്കാം എന്നും അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രിഡ് ഗ്രൂപ്പ് മോഡലിൽ ഉള്ള സംവിധാനം ഉണ്ടാകേണ്ടത് അത് പിന്നീട് വരും എന്നാൽ ഗ്രിഡും ഗ്രൂപ്പും അടിസ്ഥാനമാക്കി സംസ്കാരത്തെ തരം തിരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് അവൾ 1978 ൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു പരമ്പരാഗത നരവംശശാസ്ത്രജ്ഞർ സംസ്കാരത്തെക്കുറിച്ചുള്ള നരവംശശാസ്ത്ര പഠനങ്ങൾ അവർക്ക് സംസ്കാരത്തിന്റെ ഒരു വിഭാഗവും ഇല്ല എന്ന് അവർ അവകാശപ്പെടുന്നു അതിനാൽ നിങ്ങൾ ആഫ്രിക്കയിലെ ഏതെങ്കിലും സംസ്കാരം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏഷ്യയിലെ ഒരു സംസ്കാരം പഠിക്കുമ്പോൾ അതുമായി താരതമ്യം ചെയ്യാൻ പാടില്ല നരവംശശാസ്ത്രജ്ഞരെ അവരുടെ കണ്ടെത്തലുകൾ സാമാന്യവൽക്കരിക്കാത്ത വിധത്തിൽ പരിശീലിപ്പിക്കുന്നു അവർ വളരെ പ്രാദേശികവൽക്കരിക്കുകയും അവരുടെ കണ്ടെത്തലുകൾ സന്ദർഭോചിതമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സാമാന്യവൽക്കരണങ്ങളിലേക്ക് എത്താൻ സംസ്കാരത്തിന്റെ വർഗ്ഗീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കണം അതിനാൽ ആളുകളുടെ മനസ്സ് മനസിലാക്കാൻ സംസ്കാരത്തെ തരംതിരിക്കുന്നതിന് ഗ്രിഡ് ആൻഡ് ഗ്രൂപ്പ് എന്ന മോഡലിലൂടെ കഴിയുമെന്ന് അവർ പറയുന്നു ഇപ്പോൾ 2 ഘടകങ്ങൾ എടുത്ത് നമുക്ക് ഇത് ചെയ്യാമെന്ന് അവൾ പറയുന്നു ഒന്ന് ആരുമായി ഇടപഴകുന്നു എങ്ങനെ ഇടപഴകുന്നു ആരുമായി ഇടപഴകുന്നു എന്നത് ഗ്രൂപ്പായി കണക്കാക്കുന്നത് അവർ എങ്ങനെ ഇടപഴകുന്നു എന്നത് ഗ്രിഡായി കണക്കാക്കുന്നു അതിനാൽ ഗ്രൂപ്പ് പൊതുവെ വ്യക്തിയുടെ ഡിഗ്രി ഓഫ് സോഷ്യൽ ഇൻകോർപറേഷനെ പ്രതിനിധീകരിക്കുന്നു ഈ റിസൾട്ട് ഞാൻ എത്ര തവണ ഒരാളെ കണ്ടുമുട്ടുന്നു ഞാൻ അയൽപക്കത്താണ് താമസിക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള നെറ്റ്വർക്ക് എത്ര സാന്ത്രമാണ് അവരിൽ ഓരോരുത്തരുമായും ഞാൻ എങ്ങനെ ഇടപഴകുന്നു ഞാൻ അവരെ ഇടയ്ക്കിടെ അല്ലെങ്കിൽ വളരെ അപൂർവ്വമായി കണ്ടുമുട്ടുന്നുണ്ടോ എനിക്ക് എല്ലാവരേയും അറിയാമോ അതോ അവരിൽ ചിലരെ എനിക്കറിയാമോ ഈ ആളുകൾ എങ്ങനെ പരസ്പരം ഇടപഴകുന്നു അത് ഒരു ഗ്രൂപ്പിനെ എത്രത്തോളം ആശ്രയിച്ചിരിക്കുന്നു എന്നതിനെയോക്കെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ചില ഗ്രൂപ്പുകൾ വളരെ ഫ്ലെക്സിബിളും വളരെ താഴ്ന്നതുമാണ് അവയ്ക്ക് നെറ്റ്വർക്ക് കുറവാണ് ഡെൻസിറ്റി കുറവാണ് അവ പലപ്പോഴും അപൂർവ്വമായി കണ്ടുമുട്ടുന്നവരാണ് ചിലത് വളരെ ഉയർന്നതാണ് ഓപ്പൺ എൻഡ് ഇന്ററാക്ഷനുകൾ പോലെ താഴ്ന്നതും ദുർബലവുമായ ഗ്രൂപ്പ് വളരെ അപൂർവ്വമായി പ്രത്യേക ഉദ്ദേശത്തിനായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ആളുകൾ ഇടപഴകുന്നതിന്റെ കാരണം ചില അയൽപക്കങ്ങളിൽ ആളുകൾ വളരെ അപൂർവ്വമായി മാത്രമേ ഇടപഴകുന്നുള്ളൂ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ പോലെ അവർ വളരെ മത്സരബുദ്ധിയുള്ളവരായിരിക്കാം അവർ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയോ ഒരു സ്കൂളിൽ ജോലി ചെയ്യുകയോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നില്ല അവർ വളരെ മത്സരബുദ്ധിയുള്ളവരാണ് എന്നാൽ അവർക്ക് വളരെ കുറച്ച് ഇടപെടലുകളേ ഉള്ളൂ മറുവശത്ത് മുഖാമുഖ ഇടപഴകലുകൾ ഉണ്ട് ഗ്രാമത്തിലെ പോലെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നു എല്ലാവർക്കും എല്ലാവരേയും അറിയാം വളരെ ശക്തമായ ഇടപെടലുകൾ ആളുകൾ പരസ്പരം സേവനങ്ങളെ ആശ്രയിക്കുന്നു അവർക്ക് ഉയർന്ന ആശ്രിതത്വമുണ്ട് അവർക്ക് പൊതുവായ ശക്തമായ ഐക്യദാർഢ്യമുണ്ട് നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇത് ഒരു വശമാണ് നമുക്ക് താഴ്ന്ന ഗ്രൂപ്പുണ്ട് മറ്റേ ഭാഗത്തു ഉയർന്ന ഗ്രൂപ്പുണ്ട്2 എക്സ്ട്രീം ഗ്രൂപ്പ് പോളറൈസിങ് കൂടാതെ നമുക്ക് ഗ്രിഡ് ഉണ്ട് ഗ്രിഡ് പ്രതിനിധീകരിക്കുന്നത് ഞാൻ ഏത് തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണം എന്നാണ് ഞാൻ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ ഞാൻ അത് പാലിക്കണം ഞാൻ ഒരു പ്രത്യേക ഗ്രൂപ്പിലെ അംഗമാണെങ്കിൽ അത്തരം നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് അവർ എന്നെ സ്വവർഗാനുരാഗി എന്ന ഓറിയന്റേഷൻ അനുവദിക്കുമോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യമായ അവകാശം അനുവദിക്കുമോ അങ്ങനെ ഫെമിനിസം ഒരുതരം സ്വവർഗരതി എങ്ങനെ ഒരാൾ അതിനെ കാണും ഒരു കൂട്ടർ അത് ഗ്രൂപ്പിന്റെ ഒരു തരം നിയമമാണെന്ന് കാണുന്നു ചില ഗ്രൂപ്പ് പെർമിറ്റ് ചെയ്യുന്നു ചില ഗ്രൂപ്പ് പെർമിറ്റ് ചെയ്യുന്നില്ല അത് ഒരു തരം നിയമം അധികാരശ്രേണി ബന്ധുത്വം വംശം ലിംഗഭേദം ആണ് ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ കാണുന്നു ഇതിനെ ഗ്രിഡ് എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് ലോ ഗ്രിഡ് ഉണ്ട് അവിടെ എല്ലാവരും തുല്യരാണ്തുല്യതയുള്ള അവസ്ഥയാണ് എല്ലാവർക്കും പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും സാമൂഹിക റോളുകളിലും പങ്കെടുക്കാൻ വംശം ലിംഗഭേദം വയസ്സ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ എന്നിവയുടെയൊന്നും അടിസ്ഥാനത്തിൽ ആരെയും തടയുന്നില്ല എല്ലാവരെയും തുല്യരായി കണക്കാക്കപ്പെടുന്നു മറ്റൊരു സാഹചര്യത്തിൽ ഇവിടെ ഹൈ ഗ്രിഡ് പാനൽ ഉള്ളിടത്ത് ആളുകളെ നിയന്ത്രിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അവരുടെ പ്രവർത്തനങ്ങൾ ജാതി മതം വർഗ്ഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കുള്ള പ്രവേശനം ഇത്തരത്തിലുള്ള ഒന്നോ അതിലധികമോ വിവേചനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ വിവേചനത്തിന് വിധേയരാകുന്നു അതിനാൽ ലോ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ നെറ്റ്വർക്കുകൾസമൂലമാണ് ഹൈ ഗ്രൂപ്പിൽ അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇടപഴകൽ ലോ ഗ്രൂപ്പിൽ വിരളമാണ് ഉയർന്ന ഗ്രൂപ്പിൽ അത് പതിവാണ് ലോ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ വ്യക്തികൾക്കിടയിലുള്ള ഇടപെടലിന്റെ അതിരുകൾ തുറന്നതും ഹൈ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ അടച്ചതുമാണ് പങ്കിടുന്ന ആക്ടിവിറ്റികൾ ലോ ഗ്രൂപ്പിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഹൈ ഗ്രൂപ്പിൽ ഒരുപാട് ഉണ്ടാവും ഗ്രിഡിന്റെ കാര്യത്തിൽ ഗ്രിഡ് ലോ ആയിരിക്കുമ്പോൾ അതായത് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പ്രത്യേക സമൂഹത്തിൽ പ്രത്യേക സമൂഹത്തിൽലോ യും ഹൈ യും ഹൊറിസോണ്ടലും വെർട്ടിക്കലും പോലെയാണ് ഒന്ന് വളരെ ശ്രേണിയിലാണ് ഒന്ന് വളരെ തുല്യമാണ് സ്പെഷ്യലൈസേഷനുകൾ ലോ ഗ്രൂപ്പിൽ ഇത് വളരെ കുറവാണ് എല്ലാവർക്കും സമാനമായ പ്രവർത്തനങ്ങളുണ്ട് അവർക്ക് സ്പെഷ്യലൈസേഷനുകളൊന്നുമില്ല ഹൈ ഗ്രൂപ്പിൽധാരാളം സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട് ധാരാളം തൊഴിൽ വിഭജനം ഉണ്ട് ആളുകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു വേർതിരിക്കപ്പെടുന്നു റോളുകളുടെ വിന്യാസം നിങ്ങളുടെ നേട്ടം പോലെയാണ് നിങ്ങൾ എന്താണ് നേടിയത് അത് പോലെ പക്ഷെ ഹൈ ഗ്രൂപ്പിൽഅത് സ്ഥാപിക്കലാണ് നിങ്ങളുടെ പിതാവ് എന്തായിരുന്നു നിങ്ങളുടെ അമ്മ എന്തായിരുന്നു പൂർവ്വികർ എന്തായിരുന്നു അത് നിങ്ങളുടെ ജാതി വ്യവസ്ഥ പോലെയാകുന്നു അടുത്തത് റിസോർസസ് അലോകേഷൻ ആണ്ലോ ഗ്രിഡിന്റെകാര്യത്തിൽ അത് സമത്വവാദം പോലെയാണ് എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും ഒരേ അവസരമുണ്ട് എന്നാൽ ഹൈ ഗ്രിഡിന്റെകാര്യത്തിൽ അത് ശ്രേണിക്രമമാണ് അവിടെ ചില എലൈറ്റ് ആളുകൾക്ക് മികച്ച ആക്സസ് ഉണ്ട് ചിലർക്ക് ആക്സസ്സ് കുറവാണ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള ശക്തി കുറവാണ് അതിനാൽ ഈ ലോ ഗ്രൂപ്പുംഗ്രിഡും ഒരു ക്രോസ് ടാബുലേഷനിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് 4 വിഭാഗങ്ങൾ ലഭിക്കും A B C D അതിനാൽ നമ്മൾ Aയിൽ നിന്ന് D യിലേക്ക് പിന്നെ C യിലേക്ക് മാറുകയാണെങ്കിൽ Aയിൽ നിന്ന് D യിലേക്ക് A വ്യക്തിപരമാണെന്നും D ഒരുതരം സമത്വവാദിയാണെന്നും C ആധികാരികമാണെന്നും നമുക്ക് പറയാം ചില സ്വേച്ഛാധിപതികൾ അവിടെയുണ്ട് A യുടെ കാര്യത്തിൽ വ്യക്തികൾക്കിടയിൽ ചെറിയ വർഗ്ഗീകരണവും വേർതിരിവുകളും ഉള്ളതുപോലെയാണ് അവരെ ആർക്കും വേർതിരിക്കാനോ വിവേചനം കാണിക്കാനോ കഴിയില്ല കാരണം അവർ കറുത്തവരാണ്അവർ സ്ത്രീകളാണ് C യുടെ കാര്യത്തിൽ വളരെ ശ്രേണിപരമാണ് അവരുടെ സാമൂഹിക സാംസ്കാരിക വ്യക്തിഗത ചലനങ്ങൾ എല്ലാം നിയന്ത്രിക്കപ്പെടുകയും ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ നമുക്ക് ഈ സാഹചര്യം ഉണ്ടാകാം ഒരാൾ വ്യക്തിപരവും ഒരാൾ സമത്വവാദിയും ശ്രേണിപരവും സ്വേച്ഛാധിപത്യപരവുമാണെന്ന് ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ശ്രേണിപരമായി നോക്കാം അത് വ്യക്തമായി നിർവചിക്കപ്പെട്ട റോൾ പോലെയാണ് മുകളിൽ ആരെങ്കിലും ശക്തമായ ഒരു ശ്രേണിയുണ്ടെങ്കിൽ താഴെയും ഒരാൾ ഉണ്ടാവുംഅവരുടേത് വളരെ കർക്കശമായി വ്യക്തമായി നിർവചിക്കപ്പെട്ട റോളാണ് ഉദാഹരണത്തിന് ജാതി വ്യവസ്ഥ പോലെ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒപ്പം വിശ്വസ്തത അനുഭവിക്കുക നിങ്ങൾ ഹലോ പറയണം ഞാൻ നിങ്ങളോട് വിശ്വസ്തനാണ് ഞാൻ നിങ്ങളുടെ കൽപ്പന അനുസരിക്കും നിങ്ങളുടെ രാജാവിനോട് അതിനാൽ ഒരു രാജാവുണ്ട് ഒരു പ്രജയുണ്ട് അസമത്വങ്ങൾ അവിടെ നിലനിൽക്കുന്നു അസമത്വങ്ങൾ ന്യായവും അർഹവുമാണ് അസമത്വങ്ങൾ അവിടെയുണ്ട് കാരണം ആളുകൾക്ക് വ്യത്യസ്ത കഴിവുകൾ ഉണ്ട് അതിനാൽ അസമത്വങ്ങൾ ശരിയാണെന്ന് ന്യായീകരിക്കപ്പെടുന്നു വ്യക്തിത്വങ്ങളുടെയോ വ്യക്തിത്വ സമൂഹത്തിന്റെയോ സംസ്കാരത്തിന്റെയോ കാര്യത്തിൽ അത് വളരെ വ്യത്യസ്തമാണ് അത് അനുസരിച്ച് ആർക്കും ചേരാം അവരുടെ ചോയ്സ് എന്ത് തന്നെയായാലും അവർക്ക് ഇഷ്ടമുള്ളത് പിന്തുടരാം അവർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമുണ്ട് ആളുകൾക്ക് പരസ്പര പിന്തുണയില്ല കാരണം ഇത് ഒരു വ്യക്തിഗത സമൂഹമാണ് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും അതാണ് നിങ്ങൾ എന്തായാലും ഞാൻ നിങ്ങളെ സഹായിക്കാനും ആരുമായും ഇടപഴകാനും പോകുന്നില്ല അതിനാൽ നിങ്ങൾ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ചെയ്യാം നിങ്ങൾക്ക് ആരുമായും ഇടപഴകാം നിങ്ങൾക്ക് ഒരു സ്വവർഗാനുരാഗിയാകാം നിങ്ങൾക്ക് ഒരു ഫെമിനിസ്റ്റാകാം നിങ്ങൾക്ക് ഒരു റാഡിക്കലാകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംനിങ്ങൾ ആരെയും ദ്രോഹിക്കാതിരിക്കുന്നത് വരെഅതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ നിങ്ങൾ സ്വതന്ത്രരാണ് സമത്വവാദിയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരെ പോലെയാണ്അവിടെ ഒരു ലീഡർ ഇല്ല പദവിയുടെയും സ്ഥാനമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസമില്ല കൂടാതെ ഒരുപാട് ഐക്യദാർഢ്യങ്ങളുണ്ട് ആളുകൾ പരസ്പരം അംഗങ്ങളെ സഹായിക്കുന്നുപക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ട്അവർ വളരെ ശക്തരാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇതാണ് നമ്മൾ ഇതാണ് അവർ അങ്ങനെയാണെന്ന് അവർ വിശ്വസിക്കുന്നു ഞങ്ങളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ അവരും നമ്മളും തമ്മിൽ എന്ന ഒരു മെന്റാലിറ്റി അവിടെ ഉണ്ട് വേട്ടയാടുന്ന സംഘങ്ങളുടെ കാര്യത്തിലോ കമ്മ്യൂണുകളുടെ ചില കുറ്റകൃത്യങ്ങളിലോ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഒന്ന് സ്വേച്ഛാധിപതിയോ മാരകവാദികളോ ആണ് ഇവിടെ ആ ഒരാൾഒരു ഭരണാധികാരിയുണ്ട് തോറ്റ സൈനികരെപ്പോലെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന നിയമത്താൽ ജീവിതം പരിമിതപ്പെടുത്തുന്നു രാജാവിന്റെ കൽപ്പന അവർ അനുസരിക്കണം അവിടെ വിശ്വാസമോ സഹകരണമോ ഇല്ല ഇത് ആധിപത്യം മാത്രമാണ് ഒരാൾ മറ്റുള്ളവരെ ഭരിക്കുന്നു അതിനാൽ സ്വയം പ്രതിരോധിക്കാൻ അവശേഷിക്കുന്നവർ ആരൊക്കെയാണ് ഞാൻ പറഞ്ഞതുപോലെ അടിമയെ പോലെ അല്ലെങ്കിൽ തടവുകാർ അതിനാൽ ഈ ഗ്രൂപ്പുകളിലെ ഓരോ ആളുകളും ഈ 4 ഗ്രൂപ്പുകൾ സാംസ്കാരിക ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ സാംസ്കാരിക വിഭാഗങ്ങളുടെ ഗ്രിഡ് ആൻഡ് ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവർ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത മൂല്യങ്ങളിലൂടെ വ്യത്യസ്ത ലെൻസുകളിലൂടെ വ്യത്യസ്ത ധാരണകളിലൂടെ അഭിപ്രായങ്ങളിലൂടെ നോക്കുന്നു വ്യക്തിഗത ജീവശാസ്ത്രപരമായ സവിശേഷതകളല്ല അവരുടെ മൂല്യങ്ങളെ നിർവചിക്കുന്നത് എന്നാൽ അവർ ഏത് സംസ്ക്കാരത്തിൽ പെട്ടവരാണ് എന്നത് പ്രധാനമാണ് ഒരാൾ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നുചിലർക്ക് അത് സാദാരണയാണ് എന്നാൽ മറ്റൊരാൾക്ക് അത് ഞെട്ടൽ ഉണ്ടാക്കുംകാരണം അത് ഫോർക് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ചിലർ മദ്യം കഴിക്കാത്തത് പോലെയാണ് ഉദാഹരണമായി മുസ്ലിമുകൾക്ക് മദ്യം കഴിക്കാൻ പാടില്ലഅല്ലെങ്കിൽ വെളുത്ത തൊലിയുള്ള ഒരു വിദേശിയെ ശ്രീലങ്കയുടെയോ ദക്ഷിണേന്ത്യയുടെയോ ഒരു ഭാഗത്ത് കാണുന്നു ഇത് കണ്ട് മറ്റുള്ളവർ വളരെ ആശ്ചര്യപ്പെടുന്നു അതിനാൽ നമുക്ക് മാനുഷിക സവിശേഷതകളെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളതിനാൽ 1978 ൽ മൈക്കൽ തോംസൺ ഈ സാംസ്കാരിക പാറ്റേൺ ഉപയോഗിച്ച് പറയാൻ ശ്രമിച്ചത് ഇത് സാംസ്കാരിക പാറ്റേണല്ല യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക പാറ്റേൺ അതിലൂടെ ആളുകൾ റിസ്കിനെ എങ്ങനെ കാണുന്നു എന്ന് നിർവചിക്കുന്നു എങ്ങനെയാണ് ആളുകൾ റിസ്കിനെ കാണുന്നത് അതിനാൽ ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത സാംസ്കാരിക പാറ്റേൺ ഒന്ന് വളരെ ശ്രേണീകൃതമാണ് പിന്നെ നമുക്ക് സമത്വമുണ്ട് എല്ലാവരും തുല്യരും വ്യക്തിത്വവാദികളും സ്വേച്ഛാധിപതികളും ആണ് ഇപ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് റിസ്കിനെ കാണുന്നു ഇത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും വ്യക്തിത്വവാദിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ മനുഷ്യൻ എത്ര ശല്യപ്പെടുത്തിയാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുംഅതായത് പ്രകൃതിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയും അത് അതിശക്തമാണ് അതിനാൽ നിങ്ങളുടെ സ്വന്തം ക്ഷേമത്തിനായി നിങ്ങളുടെ നേട്ടത്തിനായി നിങ്ങളുടെ സ്വന്തം വിജയത്തിനായി നിങ്ങൾക്ക് പ്രകൃതിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പ്രയോജനപ്പെടുത്താം ഈ പ്രകൃതി മിഥ്യ കാണിക്കുന്നത് നിയന്ത്രണത്തിന്റെയോ സഹകരണത്തിന്റെയോ ആവശ്യമില്ലെന്നാണ് ആളുകൾക്ക് പ്രകൃതിയെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ഒരു റിസ്ക്കും നിലവിലില്ല പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആളുകളെ സ്വതന്ത്രരാക്കാം കാരണം ഇത് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹമാണ് എല്ലാവരും സ്വതന്ത്രരാണ് അവരുടെ സ്റ്റാറ്റസ് അസ്ക്രൈബ് സ്റ്റാറ്റസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് സമത്വവാദത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അത് വ്യക്തിത്വത്തിന് വിപരീതമാണെന്ന് അവർ കാണുന്നു പ്രകൃതി വളരെ ദുർബലമാണെന്ന് അവർ കരുതുന്നു ഏത് ചെറിയ തെറ്റും ഒരു കുന്നിന്റെ മുകളിൽ ബാലൻസ് ചെയ്ത് വെച്ച പന്ത് പോലെ പ്രകൃതി തകർന്ന് വീഴാൻ കാരണമാകും അതായത് അതിൽ സ്പർശിച്ചാൽ മതി അത് വീഴുംനമുക്ക് വളരെയധികം നിയന്ത്രണം ആവശ്യമാണ് ഒരുപാട് നിയന്ത്രണം പിന്നെ അത്തരം ഭീഷണികളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ സഹകരണവും ആവശ്യമാണ് അതിനാൽ അപകട ഭീഷണിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ നമ്മൾ പരസ്പരം സഹായിക്കണം അപകടസാധ്യതയുടെ ഭീഷണിയിൽ നിന്ന് പിന്നെ നമുക്ക് ശ്രേണീബന്ധം ഉണ്ട് പ്രകൃതിയെ സ്വതന്ത്രമായി ചൂഷണം ചെയ്യാമെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ അവിടെ ചില നിയമങ്ങളുണ്ട് പ്രത്യേക രീതി ഉണ്ട് അതിന് ഒരു പരിധിയുണ്ടെന്ന് അവർ നിർവചിക്കുന്നുഅവർ ഒരു പരിധി നിശ്ചയിക്കുന്നു കാരണം അവർക്ക് വളരെ കർശനമായ അധികാരമുണ്ട് അധികാരികളോ ഉയർന്ന ആളുകളോ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഉന്നതരായ ആളുകളോ അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാം അതിനാൽ അവർ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു വിദഗ്ദ്ധർക്ക് നിങ്ങളോട് ശരിയും തെറ്റും പറയാൻ കഴിയും രാജാവിന് നിങ്ങളോട് ശരിയും തെറ്റും എന്താണെന്ന് പറയാൻ കഴിയും നിങ്ങൾ ആ പരിധി പിന്തുടരേണ്ടതുണ്ട് നിങ്ങൾക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ചില പോയിന്റുകൾ മറികടക്കാൻ കഴിയില്ല ചില അതിരുകൾ മറികടക്കാൻ കഴിയില്ല നിങ്ങൾ അത് കടന്നാൽ നിങ്ങൾ പ്രകൃതിയെ അപകടത്തിലാക്കുന്നു മറുവശത്ത് മാരകവാദികൾ ഉണ്ട് ഏതെങ്കിലും ഉത്തേജനത്തോട് പ്രകൃതി എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല റിസ്ക് എന്താണെന്ന് അവർക്കറിയില്ല അത് സംരക്ഷിതമാണോ അല്ലയോ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ ചൊല്ലി പോരാടുന്നതിൽ അർത്ഥമില്ല പകരം നിങ്ങൾ പഞ്ചുകൾ ഉപയോഗിച്ച് ഉരുട്ടാൻ ശ്രമിക്കണം അതിനാൽ നിങ്ങൾ ചെയ്യണം അതിനാൽ അവരാണ് ഏറ്റവും ദുർബലർ ഇവിടെ നമ്മൾ 2 റിസ്ക്കുകളുടെ മനോഭാവം നോക്കുന്നു ഒന്ന് വ്യക്തിത്വവാദികൾ അവർ റിസ്കിനെ ഭയപ്പെടുന്നു അത് വിപണിയെ പരിമിതപ്പെടുത്തുകയും സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാനുള്ള അവരുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു സമത്വവാദി ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ ദുരന്തസാധ്യത യുടെ ഭീഷണി ഉപയോഗിക്കുക ഉദാഹരണമായി ഗ്ലോബൽ വാർമിംഗ് അധികാരശ്രേണിക്കാർ റിസ്കിനെ ഭയപ്പെടുന്നു കാരണം അത് ആളുകളുടെ റാങ്കിംഗിനെ അപ്സെറ്റ് ആക്കുന്നു ഉദാഹരണത്തിന് കുറ്റകൃത്യം അല്ലെങ്കിൽ സാമൂഹിക വ്യതിയാനം ഫാറ്റലിസ്റ്റുകൾ ഒരു അപകടത്തെയും ഭയപ്പെടേണ്ട ഒരു കാര്യവും കാണുന്നില്ല അവർക്ക് എന്തും ചെയ്യാം എന്നല്ല നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരാൾ അവരുടെ സാംസ്കാരിക വീക്ഷണകോണിൽ നിന്ന് അപകടത്തെ എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു എന്നതാണ് റിസ്ക് വസ്തുനിഷ്ഠവും അപകടസാധ്യതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ല പക്ഷെ അതിനേക്കാളും കൂടുതൽ ആളുകൾ എങ്ങനെ സാംസ്കാരികമായി കേന്ദ്രീകരിക്കപ്പെടുന്നുഓരോ കേസിലും നമ്മൾ കാണുന്നത് പോലെ അവരുടെ ധാരണ മൂല്യങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടുന്നു അതായത് വ്യക്തിത്വ വാദികൾ സമത്വവാദികൾ ശ്രേണിവാദികൾ മാരകവാദികൾ ഇവരുടെയെല്ലാം ഈ ആശയം പിന്നീട് സ്റ്റീവ് റെയ്നർകുറച്ചുകൂടി വികസിപ്പിച്ചെടുത്തു അപകടസാധ്യതയെക്കുറിച്ചുള്ള പോളിതെറ്റിക് കോൺസെപ്റ് നെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പൊതുവെ അപകടസാധ്യത എന്നത് ഒരു പ്രതികൂല സംഭവത്തിന്റെ സാധ്യതയും അതിന്റെ അനന്തരഫലത്തിന്റെ വ്യാപ്തിയുമാണ് എന്തെങ്കിലും സംഭവിക്കും ഒരു പ്രതികൂല കാര്യം സംഭവിക്കും എന്നിട്ട് അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ അപകടസാധ്യത അതിനേക്കാൾ കൂടുതലാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഒരുതരം ധാരണകളാണ് അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യത്യാസപ്പെടുന്നു അതിന് ഒരറ്റ അർത്ഥമല്ല അപകടസാധ്യത കൂടുതൽ പോളിതെറ്റിക്ആണ് അതിനാൽ അദ്ദേഹത്തിന് ഈ ഫിലോസഫിക്കൽ ഐഡിയലഭിച്ചു വിറ്റ്ജൻസ്റ്റൈനിൽ നിന്ന് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു ഗെയിമിന്റെ അർത്ഥം എന്താണ് കാരണം നിങ്ങൾ ഒരു ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ഗെയിമുകൾക്കും പൊതുവായുള്ള എന്തെങ്കിലും നിങ്ങൾ കാണില്ല ഉദാഹരണത്തിന്നമുക്ക് ഇവിടെ ഗെയിം ഉണ്ട് 3 4 ഗെയിമുകൾ ഒന്ന് ക്രിക്കറ്റ് സോക്കർ ചെസ് സോളിറ്റയർ ആദ്യ ഭാഗത്ത് അവയെല്ലാം ഒരു ഗെയിമായി കണക്കാക്കുന്നു പക്ഷേ അവയ്ക്ക് പരസ്പരം സാമ്യം കുറവാണ് ഉദാഹരണത്തിന് ക്രിക്കറ്റ് അല്ലെങ്കിൽ സോക്കർ രണ്ടിലും ഓരോ ടീമിനും വേണ്ടി 11 കളിക്കാർ കളിക്കുന്നു അതിനാൽ അവയ്ക്ക് ചില സമാനതകളുണ്ട് എന്നാൽ നിയമങ്ങൾ ലക്ഷ്യങ്ങൾ തന്ത്രങ്ങൾ എന്നിവയുടെ കാര്യം എടുത്താൽ അവ തികച്ചും വ്യത്യസ്തമാണ് മറുവശത്ത് അവ ചെസ്സ് അഥവാ സോളിറ്റയർ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മറ്റൊരു അർത്ഥത്തിൽ ചെസ്സും സോളിറ്റയറും വളരെ സാമ്യമുള്ളതാണ് കാരണം അവ രണ്ടും ബോർഡിൽ കളിക്കുന്നു അവ രണ്ടും അത്ര മത്സരബുദ്ധിയുള്ളതല്ല അതിനാൽ സോക്കർ ക്രിക്കറ്റ് ചെസ്സ് സോളിറ്റയർഎന്നിവയെ ബന്ധിപ്പിക്കുന്ന ലിങ്കുകളുടെ ഒരു പരമ്പരയുണ്ട് പക്ഷേ ഒരൊറ്റ സവിശേഷതയോ അല്ലെങ്കിൽ അതിനെ ഒരു ഗെയിം ആയി കണക്കാക്കാൻ മതിയായ വ്യവസ്ഥയോ ഇല്ല ഫോർമേഷൻ കോൺസെപ്റ്റിന്റെഎല്ലാ സമ്പ്രദായത്തിലും ഒരു ചെയിനിന്റെ ഒരറ്റത്തുള്ള ഒരേ വിഭാഗത്തിൽ പെടുന്ന ഇനങ്ങൾക്ക് മറ്റേ അറ്റത്തുള്ളവയുമായി പൊതുവായ വ്യവസ്ഥകളൊന്നും ഉണ്ടാകേണ്ടതില്ല അതായത് ഒരർത്ഥത്തിൽ അവയ്ക്ക് ചില സമാനതകൾ ഉണ്ട് അവയെല്ലാം ലക്ഷ്യബോധമുള്ളവയാണ് പക്ഷേ അത് ഗെയിമിന്റെ സവിശേഷതകൾ നിർവചിക്കണം എന്നില്ല ഗെയിമിന് കൂടുതൽ സവിശേഷതകൾ ആവശ്യമാണ് അങ്ങനെ ഒന്ന് അതിനാൽ അവയ്ക്ക് ചില സമാനതകളുണ്ട് പക്ഷേ അവയ്ക്ക് ചില വ്യത്യാസങ്ങളുമുണ്ട് അതിനാൽ എന്തിനും ഏതിനും ഒരു സവിശേഷത ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം പക്ഷേ അതിനെ നിർവചിക്കാനോഗെയിം എന്ന് വിളിക്കാനോ പര്യാപ്തമായ ഒന്നായിരിക്കണം അത് എന്നില്ല എന്നാൽ അതേപോലെ തന്നെ രണ്ട് നടപടിക്രമങ്ങൾക്കിടയിലെ തിരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം വാദിക്കുന്നുമിക്ക റിസ്ക് മാനേജ്മെന്റ് തീരുമാനങ്ങളിലും ഉള്ളതുപോലെ പ്രോബബിലിറ്റിയിലെ വ്യത്യാസം ചെറുതായിരിക്കുമ്പോൾ അതിനാൽ ആളുകൾ ശ്രദ്ധിക്കുന്നില്ലഉയർന്ന പ്രോബബിലിറ്റിയും ഉയർന്ന മാഗ്നിറ്റ്യൂഡുംഉള്ളപ്പോൾ അവിടെ ആശയക്കുഴപ്പമൊന്നുമില്ല ആളുകൾ പറയുന്നു ശരി ഞാൻ അപകടസാധ്യത സ്വീകരിക്കുന്നു പക്ഷെ ലോ പ്രോബബിലിറ്റി യുടെ കാര്യത്തിൽറേഡിയേഷൻ എക്സ്പോഷർ പോലെ മെഡിസിനിലെ ലേബലുകൾ അല്ലെങ്കിൽ അനുവദനീയമായ ലെവലുകൾ അല്ലെങ്കിൽ ക്യാൻസറിലെ പോസ്സിബിൾ കാർസിനോജെൻസ് എന്നിവ പോലുള്ള ലോ പ്രോബബിലിറ്റി യുള്ള റിസ്ക് ആളുകൾക്ക് വളരെ വ്യക്തമല്ല അതിനാൽ ആളുകൾ എന്ത് ചെയ്യും അത് അംഗീകരിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് അവരെങ്ങനെ തീരുമാനിക്കും അതിനാൽ അതിനായി നമുക്ക് TLC എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം മോഡൽ നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുട്രസ്റ്റ് ലയബിലിറ്റി കൺസെന്റ് റിസ്കിന്റെ പോളിതെറ്റിക്നിർവ്വചനം എന്തെന്നാൽ പ്രൊബബിലിറ്റിയും മാഗ്നിട്യൂഡും റിസ്കിനെ നോക്കുന്നതിനുള്ള പരമ്പരാഗത മാർഗമാണ് പക്ഷേ അത് പോരാനമ്മൾ TLC കൂടി ചേർക്കണം ഇതാണ് ട്രസ്റ്റിന്റെ തത്വംലയബിലിറ്റി യും കൺസെന്റും വിഷയം തന്നെയാണ് റിസ്ക് എന്താണെന്ന് നിർവചിക്കുമ്പോൾ അതുപോലെ ആണവ നിലയത്തിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങളോട് പറയണമെങ്കിൽ നമുക്ക് ഇത് പരിഗണിക്കാം ഈ TLC ആശയം അങ്ങനെയാണ് ആണവ നിലയത്തിന്റെ ആവശ്യം എന്ന പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആണവ നിലയം ഉണ്ടാകേണ്ടത് അത് നിർവചിക്കുകയും കക്ഷികൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുകയും വേണം പ്ലാന്റിനായി ആരാണ് പാസാക്കുക ആരാണ് അതിന്റെ ബാധ്യത ഏറ്റെടുക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് ആർക്കാണ് പ്രയോജനം ലഭിക്കുക ആരാണ് അതിന്റെ പ്രയോജനം എടുക്കുകറിസ്ക്കും സാങ്കേതികവിദ്യയുടെ മാനേജ്മെന്റും നിർവചിക്കുമ്പോൾ ഇവയും പരിഗണിക്കണം അതിനാൽ ഇത്തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിശ്വാസം വളരെ നിർണായകമായ ഒരു പ്രധാന പോയിന്റാണ് അങ്ങനെ ചില വിവരങ്ങൾ ഞാൻ നൽകിവളരെ നന്ദി